ഒരു കാന്തിക മണ്ഡലത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം I വൈദ്യുത ഫീൽഡ് ഊർജ്ജം സംഭരിക്കുന്നതിന് സമാനമായ രീതിയിൽ കാന്തികക്ഷേത്രം ഊർജ്ജം സംഭരിക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചു അത് നമ്മൾ മുൻപ് കണ്ടതുപോലെ 12 എപ്സിലോൺ 0 E സ്ക്വയറാണ് ഊർജ്ജം 120E2 ഇന്നത്തെ പ്രഭാഷണത്തിൽ ഊർജ്ജം എന്തായിരിക്കണമെന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഫാരഡേയുടെയും ലെൻസിന്റെയും നിയമം ഉപയോഗിക്കാൻ പോകുന്നു കാന്തിക മണ്ഡലത്തിൽ കുറച്ച് ഊർജ്ജം സംഭരിച്ചിരിക്കണം അത് എന്തായിരിക്കണം എന്ന് നമുക്ക് നോക്കാം അതിനാൽ കാന്തികക്ഷേത്രത്തിൽ എന്തുകൊണ്ട് ഊർജ്ജം ഉണ്ടായിരിക്കണമെന്ന് നോക്കി നമുക്ക് ആരംഭിക്കാം കാരണം ഒരു കാന്തികക്ഷേത്രം സ്ഥാപിക്കുന്നതിന് ഞാൻ B ഉപയോഗിക്കും കാരണം നമുക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഞാൻ ഒരു ഇൻഡക്റ്റർ എടുക്കുകയും ഒരു സ്വിച്ച് വഴി അതിലൂടെ കറന്റ് ഒഴുക്കാൻ ശ്രമിച്ചാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് ഇൻഡക്ടറിൽ ഒരു ബാക്ക് EMF അല്ലെങ്കിൽ EMF വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ EMF എന്നാൽ അത് സ്ഥാപിക്കുന്ന മാറ്റത്തിനെ എതിർക്കുന്ന രീതിയിലുള്ളതാണ് അതിനാൽ ഇത് ബാക്ക് EMF എന്നും അറിയപ്പെടുന്നു ഞാൻ ഈ സർക്യൂട്ട് എടുക്കുന്നു ഞാനിവിടെ ഒരു റെസിസ്റ്റർ ഒരു സ്വിച്ച് ഒരു ബാറ്ററി എന്നിവ ബന്ധിപ്പിച്ചിരിക്കുന്നു ഞാൻ ഈ സ്വിച്ച് ഓണാക്കിയ ഉടൻ കറന്റ് വർദ്ധിക്കാൻ ശ്രമിക്കുന്നു അതായത് I t വർദ്ധിക്കാൻ ശ്രമിക്കുന്നു അത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇവിടെ വികസിപ്പിച്ചെടുത്ത ഒരു ബാക്ക് EMF ഉണ്ട് അത് മൈനസ് L d Idt യ്ക്ക് തുല്യമാണ് അത് ഈ മാറ്റത്തെ എതിർക്കുന്നു ഞാൻ ഇത് വീണ്ടും വിശദീകരിക്കാം നമുക്ക് വർക്ക് ചെയ്യണം അപ്പോൾ ഈ EMF മറികടക്കാൻ നമ്മൾ ഊർജ്ജം നൽകണം അതിനാൽ നിങ്ങൾ ഒരു സാമ്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഒരു ബാറ്ററി ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാനാകും അത് വൈദ്യുതധാരയെ എതിർക്കുന്നു അതിനാൽ എനിക്ക് ഊർജ്ജം നൽകണം അങ്ങനെ ഈ ബാറ്ററി വഴി കറന്റ് കടന്നുപോകുന്നു ഞാൻ ചെയ്യുന്ന ആ വർക്ക് ഈ വൈദ്യുതധാരയിൽ നിന്ന് ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം സ്ഥാപിക്കുന്നതിലേക്ക് പോകുന്നു അതിനാൽ ഒടുവിൽ നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഈ ഊർജ്ജം കാന്തികക്ഷേത്രത്തിൽ സംഭരിച്ചിരിക്കുന്നതുപോലെയാണെന്നാണ് ഇതിനു സമാനമായിഎനിക്ക് ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഞാൻ ഒരു സ്വിച്ച് വഴി ഒരു കറന്റ് ഓണാക്കിയാൽ കറന്റ് പതുക്കെ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ കപ്പാസിറ്ററിലെ ചാർജ് പതുക്കെ കൂടുകയും അപ്പോൾ ഞാൻ ഊർജ്ജം നൽകുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ചാർജ് അത് കപ്പാസിറ്ററിലോ അവിടെയുള്ള വൈദ്യുത മണ്ഡലത്തിലോ സൂക്ഷിക്കുന്നു അതിനാൽ ഇപ്പോൾ സംഭരിച്ചിരിക്കുന്ന എത്ര ഊർജ്ജം നമ്മൾ വിതരണം ചെയ്യുന്നുവെന്ന് എങ്ങനെ കണ്ടെത്താം എന്നൊരു സമാനമായ ഒരു കണക്കുകൂട്ടൽ നടത്തുകയാണ് അതിനാൽ നമുക്ക് അത് ചെയ്യാം ഇൻഡക്ടൻസ് L ഉള്ള ഈ ഇൻഡക്റ്റർ റെസിസ്റ്റൻസ് R ബാറ്ററി എന്നിവ നമുക്കുണ്ട് t പൂജ്യത്തിനു തുല്യമാകുമ്പോൾ ഈ സ്വിച്ച് നമുക്ക് ഓൺ ചെയ്യാം കിർചോഫിന്റെ നിയമപ്രകാരം എനിക്ക് EMF E കൂടാതെ ഉള്ള ഒരു ബാക്ക് EMF L dIdt അതിൽ നിന്ന് കുറച്ചാൽ അത് I R ന് തുല്യമായിരിക്കും അതിനാൽ എനിക്ക് കിട്ടുന്ന സമവാക്യം L d I d t പ്ലസ് I R എന്നത് EMF അല്ലെങ്കിൽ പ്രയോഗിച്ച വോൾട്ടേജിന് തുല്യമാണ് അല്ലെങ്കിൽ d I by d t plus R ഓവർ L I എനിക്ക് E ഓവർ L ന് തുല്യമാണ് ϵ LdIdtIR or LdIdtIRϵ dIdtRLIL ഇതിൻറെ ഉത്തരമാണ് ഏകീകൃത ഭാഗത്തിൻറെ ഉത്തരംഇത് ഒരു സ്ഥിരാങ്കം C തവണ e റെയ്സ് ടു മൈനസ് R ഓവർ L t പ്ലസ് മറ്റൊരു ഭാഗം ഏകതാനമല്ലാത്ത പദമായ E അത് E L ഓവർ R L ആകുന്നു ഇത് I t ക്ക് തുല്യമാകുന്നു ഇതിലെ L ഒഴിവാക്കുന്നതാണ് അതിനാൽ ഇത് C e റെയ്സ് ടു മൈനസ് R ഓവർ L t പ്ലസ് E ഓവർ R ന് തുല്യമാണ് ഇത് സമയത്തിന്റെ ഒരു ഫംഗ്ഷനെന്ന നിലയിൽ ഉള്ള വൈദ്യുതധാരയാണ് ItCe RLtR ഇനി നമുക്ക് പ്രാരംഭ വ്യവസ്ഥകൾ പ്രയോഗിക്കാം പ്രാരംഭ നിബന്ധനകൾ എന്തെന്നാൽ I t പൂജ്യത്തിനു തുല്യമാകുന്ന സമയത്ത് 0 ആയിരിക്കും ഞാൻ ഈ n പകരമായി നൽകുമ്പോൾ എനിക്ക് C മൈനസ് ER നു തുല്യമായി ലഭിക്കുന്നു അതിനാൽ അവസാനമായി I t എന്നതിൻറെ മൂല്യം E ഓവർ R 1 മൈനസ് e റെയ്സ് ടു മൈനസ് R ഓവർ L t ആയിരിക്കും ഇത് നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഒരു ഫലമാണ് It00 ∴C R ItR ഞാൻ ഇതിനെ I t യെ t യ്ക്ക് എതിരായി പ്ലോട്ട് ചെയ്താൽ അത് മുകളിലേക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫ് ആയിരിക്കും ലഭിക്കുക ഒടുവിൽ t അനന്തതയിലേക്ക് പോകുമ്പോൾ E ഓവർ R എന്ന മൂല്യത്തിലേക്ക് പോകുന്നു ഈ ഫംഗ്ഷൻ E ഓവർ R 1 മൈനസ് e റെയ്സ് ടു മൈനസ് R ഓവർ L t ആയിരിക്കും ആരംഭത്തിൽ സ്വിച്ച് ഓണാക്കിയ ഉടൻ കറന്റ് ഉണ്ടായിരിക്കില്ല ഒടുവിൽ അവിടെ ഇൻഡക്റ്റർ ഇല്ലെങ്കിൽ കറന്റ് E ഓവർ R ആയി മാറുന്നു നമുക്ക് ഇപ്പോൾ ഊർജ്ജ വിതരണം നോക്കാം അതിനാൽ ഞാൻ ഈ സമവാക്യം വീണ്ടും എടുക്കുകയാണെങ്കിൽ EMF എന്നത് L d Idt പ്ലസ് R I ക്ക് തുല്യമാണ് കൂടാതെ ഇരുവശവും സമയത്തിന്റെ ഒരു ഫംഗ്ഷനായ I കൊണ്ട് ഗുണിക്കുക അപ്പോൾ എനിക്ക് e I t എന്നത് L I d I ഓവർ d t പ്ലസ് R I സ്ക്വയറിന് തുല്യമാണ് ലഭിക്കുക ϵItLIdIdtRI2 ഈ പദം എനിക്ക് ഇതിനകം അറിയാവുന്ന ജൂൾ ഹീറ്റിംഗ് ആണ് ഇത് ഒരു യൂണിറ്റ് സമയത്തിന് ഉൽപാദിപ്പിക്കുന്ന ചൂട് അല്ലെങ്കിൽ പ്രതിരോധത്തിൽ ഉപയോഗിക്കുന്ന പവർ ആണ് മറ്റു പദത്തിനെ എനിക്ക് 12 L d Id t I സ്ക്വയർ ആയി എഴുതാം അതിനാൽ നമുക്ക് വിതരണം ചെയ്യുന്ന പവർ E തവണ I t ക്ക് തുല്യമാണ് അതായത് ഇത് 12L dd t I സ്ക്വയർ t പ്ലസ് R I സ്ക്വയറിന് തുല്യമായിരിക്കും സമയം അനന്തതയിലേക്ക് പോകുമ്പോൾ അതായത് കറന്റ് I ആകുന്ന സമയത്ത് വിതരണം ചെയ്യുന്ന മൊത്തം ഊർജ്ജം ഇൻ്റഗ്രൽ 0 മുതൽ ഇൻഫിനിറ്റി വരെ E I t d t ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയും ഇത് 12 LI സ്ക്വയർ പ്ലസ് ഇൻ്റഗ്രൽ RI സ്ക്വയർ d t ക്ക് തുല്യമായിരിക്കും അതിനാൽ ഇത് ആകെ ജൂൾ ഹീറ്റിംഗ് ആണ് അഥവാ ആകെ ഉൽപാദിപ്പിക്കുന്ന ചൂട് ആയിരിക്കും വിതരണം ചെയ്യുന്ന പവർϵIt12LdI2dtRI2 ആകെ ഊർജ്ജം 0ϵItdt12LI2RI2dt ഈ പദം എന്താണെന്നാൽ ഇത് എവിടെയോ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജമാണ് അത് സംഭരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് എങ്ങനെ അറിയാം ഞാൻ ബാറ്ററി ഓഫ് ചെയ്താൽ കറന്റ് ഉടനടി കുറയുന്നില്ല ഈ സംഭരിച്ച ഊർജ്ജം വഴി ഊർജ്ജം വിതരണം ചെയ്യപ്പെടുന്നു എന്നെനിക്കറിയാം അതിനാൽ ഈ ഊർജ്ജം സർക്യൂട്ടിൽ സംഭരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നു അത് ഈ നിശ്ചിതമായ കറൻറ് ഉല്പാദിപ്പിക്കുന്ന കാന്തികക്ഷേത്രം B യിൽ സംഭരിക്കുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഫോർമുലയെ കാന്തിക മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ ഊർജ്ജമാക്കി മാറ്റുക എന്നതാണ് പ്രത്യേകിച്ച് കാന്തിക മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ ഊർജ്ജ സാന്ദ്രത അഥവാ ഒരു യൂണിറ്റ് വോള്യത്തിലുള്ള ഊർജ്ജം ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജ സൂത്രവാക്യം 12 L I സ്ക്വയറിന് തുല്യമായതിനാൽ നമ്മൾ താഴെ പറയുന്ന രീതിയിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതാണ് ഞാൻ ഈ വയർ ഒരു ഇൻഡക്ടറായി എടുക്കട്ടെ അതിന് വളരെ ചെറിയ കനം നൽകട്ടെ അത് കറന്റ് I വഹിക്കട്ടെ ഇൻഡക്റ്റൻസ് L ൻറെ നിർവചനം അനുസരിച്ച് ഫ്ലക്സ് ഫൈ ഉപരിതലത്തിലൂടെ കടന്നുപോകുന്നു അതിനെ ഈ ഉപരിതലത്തിൽ ഞാൻ ചുവപ്പ് നിറത്തിൽ കാണിക്കട്ടെ വയർ കൊണ്ട് പൊതിഞ്ഞ ഉപരിതല വിസ്തീർണ്ണം L I ക്ക് തുല്യമായിരിക്കും അതിനാൽ ഈ സംഭരിച്ച ഊർജ്ജം W എന്നത് 12 I തവണ LI ആണ് അതിനെ നമുക്ക് 12 I ഫ്ലക്സ് ഫൈ ആയി എഴുതാം സംഭരിച്ച ഊർജ്ജം12LI2 ϕLI W12I LI12Iϕ ഇപ്പോൾ ഈ പ്രതലത്തിലൂടെയുള്ള ഫ്ലക്സ് ഫൈ ഉപരിതലത്തിലുള്ള കാന്തികക്ഷേത്രം B ഡോട്ട് d s ന് തുല്യമാണെന്ന് എനിക്കറിയാം ഇവിടെ d s എന്നത് മൂലകത്തിന്റെ ചെറിയ പ്രദേശം ആണ് തുടർന്ന് നമ്മൾ അതിനെ എല്ലായിടത്തും ഇൻ്റഗ്രറ്റ് ചെയ്യുന്നു വീണ്ടും d s I R എന്നിവയെ പരമ്പരാഗത ദിശാസൂചനയുടെ അർത്ഥത്തിൽ ഓർക്കുക അതിനാൽ ഞാൻ ഇത് 1 by 2 I ഇൻ്റഗ്രൽ B ഡോട്ട് d s ആയി എഴുതാൻ പോകുന്നു അടുത്തതായി B എന്നാൽ കേൾ A ആയ B യുടെ മറ്റൊരു ബന്ധം ഉപയോഗിക്കാൻ പോകുന്നു അങ്ങനെ എനിക്ക് സ്റ്റോക്സ് സിദ്ധാന്തം ഉപയോഗിക്കാൻ കഴിയും അടുത്ത ഘട്ടത്തിൽ 1 by 2 ഇൻ്റഗ്രൽ കേൾ A ഡോട്ട് d s ആയി ഇതിനെ എഴുതാം ഇത് എനിക്ക് സ്റ്റോക്സ് സിദ്ധാന്തം ഉപയോഗിച്ച് 1 by 2 I ഇൻ്റഗ്രൽ A dot d l എന്നതിന് തുല്യമായി വീണ്ടും എഴുതാം dl d l ൻറെയും d s ൻറെയും ദിശകൾ പരമ്പരാഗത ദിശാബോധത്തിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുക I യും d I യും അതേ ദിശയിലാണ് അതിനാൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ച ഒരു തന്ത്രം വീണ്ടും ഉപയോഗിക്കുന്നു ഞാൻ ഈ വയർ നോക്കിയാൽ I ഇതിലൂടെ പോകുന്നു ഇവിടെ ഒരു ചെറിയ ഏരിയ A ഉണ്ട് ഇവിടെ ദിശ d l ആണ് അതിനാൽ ഇത് 1 by 2 ഇൻ്റഗ്രൽ ഇവിടെ കറൻറ് I ക്ക് പകരം j ഡോട്ട് A d l A ഒരു ലംബമാണ് A d l എന്നത് വ്യാപ്തമാണ് അതിനാൽ എനിക്ക് ലഭിക്കുന്ന അവസാന എക്സ്പ്രഷൻ 1 by 2 ഇൻ്റഗ്രൽ d വോളിയം ഇതിനെ j r ഡോട്ട് A ആയി ഞാൻ എഴുതുന്നു ഈ വോളിയം ഇവിടെയുള്ള മുഴുവൻ സ്ഥലവും ഉൾക്കൊണ്ടതാണ് പക്ഷേ j പൂജ്യമല്ലാത്തിടത്ത് മാത്രമാണ് ഇത് പൂജ്യമല്ലാത്തത് അവസാനം അത് വയറിനു മുകളിൽ മാത്രം പൂജ്യം അല്ലാതാകുന്നു

W12j A അതിനാൽ കറന്റ് I വഹിക്കുന്ന ഈ വയറിൽ സമയത്തിനനുസരിച്ച് സംഭരിക്കപ്പെടുന്ന ഊജ്ജം 1 by 2 വോളിയം ഇൻ്റഗ്രൽ j r ഡോട്ട് A r എന്ന് നമുക്ക് ലഭിച്ചു ഇത് ഇതുവരെ അവസാനിച്ചിട്ടില്ല കാരണം ഈ മുഴുവൻ കാര്യങ്ങളും കാന്തിക മണ്ഡലത്തിലേക്ക് മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ മറ്റൊരു ഐഡന്റിറ്റി ഉപയോഗിക്കാൻ പോകുന്നു അത് കേൾ B എന്നാൽ j r തവണ mu 0 ന് തുല്യമാണ് അതിനാൽ j r എന്നതിനെ 1 by mu 0 കേൾ B എന്നെഴുതാം അതിനാൽ ഈ വർക്കിനെ എനിക്ക് 1 by 2 mu 0 ഇൻ്റഗ്രൽ കേൾ B ഡോട്ട് A എന്നെഴുതാൻ കഴിയും W12dr jr A B0jrjr10B W120drB A ഓർക്കുക ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഉത്പാദിപ്പിച്ചതുപോലെ നമ്മൾ ഇവയിലും ചെയ്യുന്നു അവിടെ നമ്മൾ ചാർജിന്മേലുള്ള ഇൻറഗ്രലുകളെപോലെ ഇവിടെ ഫീൽഡിന്മേലുള്ള ഇന്റഗ്രലുകളാക്കി പരിവർത്തനം ചെയ്യുന്നു ഇപ്പോൾ ഞാൻ d r നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് അർത്ഥവത്തായതായി കാണുന്നു ഇത് മുഴുവൻ സ്ഥലവും ഉൾകൊള്ളുന്ന വോളിയം ഇന്റഗ്രൽ ആണ് അത് B യുടെ കേൾ പൂജ്യം അല്ലാത്ത ഇടത്തും A പൂജ്യം അല്ലാത്ത ഇടത്തും 0 ആയിരിക്കുകയില്ല ഇപ്പോൾ നമ്മൾ ഇത് വീണ്ടും പൂർണ്ണമായും B ആക്കി മാറ്റുന്നു A ക്രോസ് B എന്നീ രണ്ട് വെക്റ്ററുകളുടെ ഡൈവർജൻസ് B ഡോട്ട് കേൾ A മൈനസ് A ഡോട്ട് കേൾ B ക്ക് തുല്യമാണ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നു ഇന്നും അതിൽനിന്ന് A ഡോട്ട് കേൾ B എന്നത് B ഡോട്ട് കേൾ A മൈനസ് ഡൈവർജൻസ് A ക്രോസ് B ക്ക് തുല്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനാൽ ഈ ഇന്റഗ്രൽ ഉപയോഗിച്ച് 1 ഓവർ 2 mu 0 ഇന്റഗ്രൽ B ഡോട്ട് കേൾ A മൈനസ് ഡൈവർജൻസ് A ക്രോസ് B എന്ന് എഴുതാം A A B A BB A AB W120dr B AB അതിനാൽ ഞാൻ ഇപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് പോകട്ടെ ഈ വർക്ക് 1 ഓവർ 2 mu 0 വോളിയം ഇന്റഗ്രൽ B ഡോട്ട് കേൾ A മൈനസ് ഡൈവർജൻസ് A ക്രോസ് B ആയിരിക്കും പക്ഷേ കേൾ A എന്നാൽ B ആയിരിക്കും അതിനാൽ ഇത് 1 ഓവർ 2 mu 0 വോളിയം ഇന്റഗ്രൽ B സ്ക്വയർ മൈനസ് 1 ഓവർ 2 mu 0 വോളിയം ഇന്റഗ്രൽ ഡൈവർജൻസ് A ക്രോസ് B ആകുന്നു ഡൈവർജൻസ് സിദ്ധാന്തമനുസരിച്ച് ഞാൻ ഇതിനെ സർഫസ് ഇന്റഗ്രൽ ആക്കി മാറ്റി 1 ഓവർ 2 mu 0 ഇന്റഗ്രൽ d s ആക്കുന്നു ഓർക്കുക ഈ ഇൻ്റഗ്രേഷൻ മുഴുവൻ സ്ഥലത്തും ഉൾക്കൊള്ളിച്ചിട്ടുള്ള താണ് അതിനാൽ ds ശരിക്കും അകലെയാണ് ഡോട്ട് A ക്രോസ് B ആണ് B ഏകദേശം 1 ഓവർ r സ്ക്വയറാണ് A 1 ഓവർ r പോലെ പോകുന്നു അതിനാൽ ഈ ഇൻ്റ ഗ്രാൻഡ് 1 ഓവർ ആർ ക്യൂബ് ആകുന്നു ds അകലെ r സ്ക്വയറായി പോകുന്നു അതിനാൽ ഈ മുഴുവൻ ഇന്റഗ്രലും 1 ഓവർ r ആയി പോകുന്നു അതിനാൽ നമുക്ക് ഇത് 0 എന്ന് എഴുതാം അതിനാൽ ഒടുവിൽ ഊർജ്ജം വോളിയം ഇന്റഗ്രൽ B സ്ക്വയർ ഓവർ 2 mu 0 ആയി വരുന്നു ഇതിനെ നമ്മൾ ഊർജ്ജ സാന്ദ്രത എന്ന് വിളിക്കുന്നു W120dr B A AB120drB2 120dr ABdr B220 കാരണം ഇത് മുഴുവൻ വോളിയത്തിലും ഇൻ്റഗ്രേഷൻ ചെയ്തത് എനിക്ക് മൊത്തം ഊർജ്ജം നൽകുന്നു അതിനാൽ കാന്തികക്ഷേത്രത്തിൽ ഒരു കാന്തിക മണ്ഡലത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജ സാന്ദ്രത അല്ലെങ്കിൽ ഊർജ്ജം B സ്ക്വയർ ഓവർ 2 mu 0 ആയിരിക്കും ഇത് 1 by 2 എപ്സിലോൺ 0 e സ്ക്വയർ എന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഊർജ്ജത്തിന് തുല്യമാണ് അടുത്ത പ്രഭാഷണത്തിൽ ഇത് ഉപയോഗിച്ച് ഞങ്ങൾ ചില ഉദാഹരണങ്ങൾ നമുക്ക് ചെയ്യാം